അതിനാൽ നമുക്ക് മറ്റൊരു ഉദാഹരണം എടുക്കാം തുടർന്ന് നമ്മൾ ഇൻഡക്ടറുകളിലേക്ക് നീങ്ങും അതിനാൽ ഇനിപ്പറയുന്നത് വോൾട്ടേജ് പൾസിന്റെ മറ്റൊരു ഉദാഹരണമാണിത് സമവാക്യം വിതരണം ചെയ്യുന്ന സ 0 5 മൈക്രോ ഫറാഡിന്റെ ടെർമിനലുകളിൽ മതിപ്പുളവാക്കുന്നു അതിനാൽ t 0 അല്ലെങ്കിൽ 0 നേക്കാൾ കുറവുള്ളപ്പോൾ vt 0 0 വോൾട്ട് നൽകുന്നു ഇത് അതിനാൽ 0 മുതൽ 1 സെക്കൻറ് വരെയുള്ള t യിൽ ഇത് 4 t e t 1 വോൾട്ടും നിങ്ങളുടെ t 1 നെക്കാൾ കൂടുതൽ ഉള്ളപ്പോൾ അർത്ഥമാക്കുന്നത് 1 നും അനന്തത്തിനും ഇടയിലാണ് vt എന്നത് 0 ൽ താഴെയുള്ളതുവരെ 0 വോൾട്ടാണ് 4 t വോൾട്ട് 0 0 നേക്കാൾ വലുതും 1 നേക്കാൾ ചെറുതും ആകുമ്പോൾ 4 e t 1 t 1നേക്കാൾ വലുതും അനന്തതയേക്കാൾ ചെറുതും ആകുമ്പോൾ അതിനാൽ കപ്പാസിറ്ററിന്റെ കറന്റ് ശക്തിക്കും ഊർജ്ജത്തിനുമായുള്ള പദപ്രയോഗം കണ്ടെത്തുന്നതിന് ഇത് ആദ്യത്തേതാണ് ഊർജ്ജത്തെ സമയത്തിന്റെ പ്രവർത്തനമായി രേഖപ്പെടുത്തുക തുടർന്ന് കപ്പാസിറ്ററിൽ ഊർജ്ജം സംഭരിക്കപ്പെടുന്ന സമയ ഇടവേള വ്യക്തമാക്കുക കപ്പാസിറ്റർ ഊർജ്ജം വിതരണം ചെയ്യുമ്പോൾ സമയത്തിന്റെ അവിഭാജ്യ സമയം വ്യക്തമാക്കുക കൂടാതെ 0 മുതൽ 1 വരെ പിഡിടിപി എന്നത് പവറും 1 മുതൽ അനന്തമായ പിഡിടിയും വിലയിരുത്തുകയും അവയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അഭിപ്രായപ്പെടുകയും ചെയ്യുക 5 സമവാക്യത്തിൽ നിന്നാണ് i C dv dt C ന് 0 5 മൈക്രോ ഫറാഡ് നൽകുന്നത് 0 5 10 6 ഫറാഡ് കപ്പാസിറ്റർ കറന്റിനുള്ള t എക്സ്പ്രഷൻ നൽകിയിരിക്കുന്നു ഓരോ ഇന്റഗ്രലും C dv dt പ്രയോഗിക്കുന്നു അതിനാൽ ആദ്യത്തെ കേസ് വോൾട്ടേജ് 0 ആയിരുന്നു അതിനാൽ C dv dt 0 ആണ് അതിനാൽ ഇത് 0 ന് 0 ന് താഴെയാണ് രണ്ടാമത്തെ കേസിൽ 0 നും 1 നും ഇടയിൽ Vt 4 t അതിനാൽ ഡെറിവേറ്റീവിനെ ഇതുമായി ബന്ധപ്പെട്ട് 4 കൊണ്ട് C കൊണ്ട് ഗുണിച്ചാൽ കിട്ടും അതിനാൽ ഇത് 2 മൈക്രോ ആമ്പിയർ ആയിരിക്കും കാരണം 10 പവറിൽ 6 ഇവിടെ 0 ൽ കൂടുതലാണു 1 എന്നതിനേക്കാൾ കുറവാണ് അതു ഇവിടെ 4 കൊടുത്തിരിക്കുന്നു അത് 4e t 1 ലഭിച്ചു അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുക C dvdt അതു 0 5 10 C C മൂല്യം ഫറാഡ് ൽ 4 e t 1 അങ്ങനെ അത് 2 e t 1 മൈക്രോ അംപെരെ t 1 നേക്കാൾ വലുതും അനന്തതയേക്കാൾ ചെറുതും ആയിരിക്കുമ്പോൾ അതിനാൽ ആ ശക്തിയിൽ നിന്നുള്ള ശക്തിയുടെ ആവിഷ്കാരം v i അതിനാൽ ഇത് നിങ്ങളുടെ v I ഞാൻ ഇത് അടയാളപ്പെടുത്തുന്നില്ല മനസ്സിലാക്കാവുന്നതേയുള്ളൂ v i അതിനാൽ v എന്നത് 0 നെക്കാൾ 0 4 t കുറവാണ് അതിനാൽ അത് 0 വാട്ട് ആയിരിക്കണം തുടർന്ന് v 4 t ഉം i 2 മൈക്രോ ആമ്പിയറും ഇവിടെ t 0 നേക്കാൾ വലുതും 1 ചെറുതും ആയിരിക്കുമ്പോൾ അതിനാൽ 2 വച്ച് ഗുണിച്ചാൽ ഇത് 8 t മൈക്രോ വാട്ട് ആയിരിക്കും അവസാനത്തേത് 4 e t 1 ആയിരിക്കും അത് നിങ്ങളുടെ vt current 2 e t 1 ഗുണിച്ചാൽ അത് 8 e 2 t 1 ആയിരിക്കും അതിനാൽ ഇത് മൈക്രോ വാട്ടാണ് t 1 നേക്കാൾ കൂടുതൽ ഉള്ളപ്പോൾ അനന്തതയേക്കാൾ കുറവുള്ളപ്പോൾ ഇതാണ് പവർ നിങ്ങളുടെ സമവാക്യം 10 ൽ നിന്ന് നേരിട്ട് ലഭിക്കുന്ന ഊർജ്ജപ്രകടനം അതിനാൽ പകുതി സീരീസ് 2 എനർജി അറിയുക അതിനാൽ ആദ്യം ഒന്ന് v h 0 ആണ് അതിനാൽ ഇത് 0 ആണ് രണ്ടാമത്തെ കേസ് നിങ്ങളുടെ v ക്ക് 4 t നൽകി അതിനാൽ C 0 5 10 പവറിലേക്ക് 6 ഫറാഡ് അതിനാൽ പകുതി C v 2 ലളിതവൽക്കരിക്കുന്നതിന് 4 t 2 മൈക്രോ ജൂൾ ലഭിക്കും അതിന് തുല്യമായ ചിലയിടങ്ങളിൽ കുറവാണ് ഞാൻ അത് ശരിയാക്കുന്നു മൂന്നാമത്തെ കേസ് പകുതി C v2 അത് 4 e പവറിന് 2 ആയി മാറും ക്ഷമിക്കണം 2 t 1 മൈക്രോ ജൂൾ ഇവയെല്ലാം മൈക്രോ ആണ് ദയവായി ഇത് ചെയ്യുക ഞാൻ ഒരു ലളിതമായ കാര്യത്തിനായി ചെയ്തു അതിനാൽ ഇതാണ് നിങ്ങളുടെ എനർജി എക്സ്പ്രഷൻ ഇപ്പോൾ ഞാൻ അത് മായ്ക്കട്ടെ അതിനാൽ ചിത്രം 7 ഊർജ്ജ പ്രവർത്തനത്തിന്റെ പ്ലോട്ട് കാണിക്കുന്നു അതിനാൽ 1 എന്നത് 4 t2 മൈക്രോ ജൂൾ ആണ് അതിനാൽ ആദ്യ ഭാഗം 0 മുതൽ 1 വരെ ആയിരിക്കും അതിനാൽ ഇത് പരാബോളയിലും പിന്നീട് 4 e 2 t 1 മൈക്രോ ജൂൾ പവറിലും കാണപ്പെടുന്നു അതിനാൽ ഇത് ഗണ്യമായി ക്ഷയിക്കുന്നു അതിനാൽ W മൈക്രോ ജൂളിൽ ആണ് ഈ സമയം നിങ്ങളുടെ x ആക്സിസ് നിങ്ങളുടെ സമയം ആണ് ഇത് വരയ്ക്കുകയാണെങ്കിൽ 4 t 2 വരെയാണ് തുടർന്ന് നിങ്ങളുടെ t 1 നേക്കാൾ കൂടുതൽ അനന്തതയേക്കാൾ കുറവ് ആണ് അതിനാൽ ഇത് നിങ്ങളുടെ 4 e t ഈ ഭാഗം 4 2 t 1 ഈ ഭാഗം 4 t 2 ഉം ഈ ഭാഗം 4 e പവറും 2 നിങ്ങളുടെ t 1 ആണ് അതിനാൽ ഇതാണ് നിങ്ങളുടെ എനർജി പ്ലോട്ട് ഫംഗ്ഷൻ പ്ലോട്ട് ഇപ്പോൾ എനർജി രണ്ടാമത്തെ കാര്യം പവർ പോസിറ്റീവ് ആയിരിക്കുമ്പോൾ കപ്പാസിറ്ററിൽ ഊർജ്ജം സംഭരിക്കപ്പെടുന്നു എന്നതാണ് അതായത് പവർ പോസിറ്റീവ് ആയിരിക്കുമ്പോൾ ഊർജ്ജം സംഭരിക്കപ്പെടുന്നു അതിനാൽ 8 t മൈക്രോ വാട്ട് എന്ന പവർ എക്സ്പ്രഷനിലേക്ക് വരിക അതിനാൽ ഇത് പോസിറ്റീവ് ആണ് അതായത് ഊർജ്ജം സംഭരിക്കപ്പെടുന്നു പവർ നെഗറ്റീവ് ആയിരിക്കുമ്പോൾ അനന്തതയേക്കാൾ 1 കുറവ് കുറവാണെങ്കിൽ അത് നെഗറ്റീവ് ആണ് അതായത് പവർ ഡെലിവർ ചെയ്യപ്പെടുന്നു അതിനാൽ ഇവിടെ നിങ്ങളുടെ ഊർജ്ജം കപ്പാസിറ്ററിൽ പവർ പോസിറ്റീവ് ആയിരിക്കുമ്പോഴെല്ലാം സംഭരിക്കപ്പെടുന്നു അതിനാൽ 0 മുതൽ 1 സെക്കൻഡ് വരെ ഇടവേളയിൽ ഊർജ്ജം സംഭരിക്കപ്പെടുന്നു വൈദ്യുതി നെഗറ്റീവ് ആയിരിക്കുമ്പോൾ കപ്പാസിറ്റർ ഊർജ്ജം വിതരണം ചെയ്യുന്നു അങ്ങനെ ഒരു സെക്കൻഡിൽ കൂടുതലുള്ള എല്ലാ t നും വിതരണം ചെയ്യുന്നു അതിനാൽ ഇപ്പോൾ അടുത്തത് പിഡിടിയുടെ സംയോജനമാണ് അതിനാൽ സമയ പരിധിയുമായി ബന്ധപ്പെട്ട ഊർജ്ജം ഇന്റഗ്രലിന്റെ പരിധിയുമായി പൊരുത്തപ്പെടുന്നെങ്കിൽ അതിനാൽ ആദ്യത്തെ ഇന്റഗ്രൽ കപ്പാസിറ്ററിൽ സംഭരിച്ചിരിക്കുന്ന ഊർജ്ജത്തെ പ്രതിനിധീകരിക്കുന്നു കാരണം ആ പിക്ക് ഇടയിലുള്ള 0 മുതൽ 1 പിഡിടി വരെ നൽകിയാൽ p പോസിറ്റീവ് ആണ് അതിനാൽ ഇതിന് നിങ്ങളുടെ പിഡിടിയും നിങ്ങളുടെ മുമ്പത്തെ p v i നൽകിയിട്ടുണ്ടെങ്കിൽ ആ p v i നൽകി അതിനാൽ ഇത് നിങ്ങളുടെ മൈക്രോ വാട്ടിന്റെ micro watt 8 t ആണ് അതിനാൽ ഊർജ്ജം സംഭരിക്കപ്പെടുന്നുവെന്ന് ഇവിടെ കാണുക അതിനാൽ രണ്ടാമത്തെ ഇന്റഗ്രലിൽ കപ്പാസിറ്റർ 1 സെക്കൻഡ് ഇടവേളയിൽ അനന്തതയിലേക്ക് മടങ്ങിയതോ വിതരണം ചെയ്തതോ ആയ ഊർജ്ജത്തെ പ്രതിനിധീകരിക്കുന്നു അതിനാൽ 0 മുതൽ 1 പിഡിടി വരെ അത് 0 മുതൽ 1 8 t dt ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അത് കൃത്യമായ ഇന്റഗ്രലിൽ 4 മൈക്രോ ജൂൾ 1 അനന്തത എന്നിവ ലഭിക്കുമ്പോൾ അത് 1 അനന്തതയിലാണെങ്കിൽ അത്തരം സാഹചര്യത്തിൽ 8 e പവർ 2 t അതിനാൽ സമന്വയിപ്പിക്കുകയും ലളിതമാക്കുകയും ചെയ്യും 4 മൈക്രോ ജൂൾ ലഭിക്കുന്നു അതിനാൽ ഊർജ്ജം സംഭരിക്കപ്പെടുന്നു വിതരണം ചെയ്യപ്പെടുന്നു അതിനാൽ അത് പൊരുത്തപ്പെടുന്നു അതിനാൽ നിങ്ങളുടെ പരിധിയില്ലാതെ സമയം കൂടുന്നതിനനുസരിച്ച് കപ്പാസിറ്ററിൽ പ്രയോഗിക്കുന്ന വോൾട്ടേജ് 0 ലേക്ക് മടങ്ങുന്നു അതിനാൽ ഈ അനുയോജ്യമായ കപ്പാസിറ്റർ നൽകുന്ന ഊർജ്ജം സംഭരിച്ച ഊർജ്ജത്തിന് തുല്യമായിരിക്കണം അതിനാൽ ഇത് നമ്മുടെ ഗ്രാഹ്യത്തിനായി ഈ ഉദാഹരണമാണ് അതിനാൽ അടുത്തതായി ഇൻഡക്റ്ററുകൾ എടുക്കും അതിനാൽ അതിനുശേഷം നിങ്ങളുടെ ആദ്യ ഓർഡർ സർക്യൂട്ടിലേക്ക് നീങ്ങും അതിനാൽ ഇൻഡക്റ്ററുകൾ നോക്കുക നിങ്ങളുടെ വൈദ്യുത ഘടകമാണ് ഇൻഡക്റ്റർ ഇത് നിങ്ങളുടെ വൈദ്യുത ഘടകത്തിൽ നിന്നുള്ള ചെറിയ വൈദ്യുത പ്രവാഹത്തിലെ മാറ്റത്തെ എതിർക്കുന്ന ഒരു ഇലക്ട്രിക്കൽ ഘടകമാണ് അതിനാൽ ഇതിന് ചുറ്റുമുള്ള വയർ ചുറ്റപ്പെട്ട ഒരു കോയിൽ ഉൾക്കൊള്ളുന്നു ഇത് നിങ്ങളുടെ സപ്പോർട്ടിംഗ് കോർ ആണ് ഇത് ഈ ചിത്രം 18 ആണ് ഇവയുടെ മെറ്റീരിയൽ കാന്തികമോ കാന്തികമല്ലാത്തതോ ആകാം അതിനാൽ ഇത് കോയിൽ ചുറ്റപ്പെട്ടതാണ് ഇതാണ് പ്രധാന മെറ്റീരിയൽ അതിനാൽ ഞാൻ ഇത് മായ്ക്കട്ടെ ഇൻഡക്ടറിന്റെ സ്വഭാവം കാന്തികക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട പ്രതിഭാസത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അതിനാൽ കാന്തികക്ഷേത്രത്തിന്റെ ഉറവിടം ഇവിടെ ചലനത്തിലെ ചാർജ് ആണ് അത് കറന്റ് dq dt അല്ലെങ്കിൽ കറന്റ് ചാർജ് ചലനമാണ് അത് നിങ്ങളുടെ കറന്റ് i dq dt ആണ് നിലവിലുള്ള സമയത്തിനനുസരിച്ച് വൈദ്യുതധാര വ്യത്യാസപ്പെടുന്നുവെങ്കിൽ കാന്തികക്ഷേത്രം സമയത്തിനനുസരിച്ച് വ്യത്യാസപ്പെടുന്നു അതിനാൽ ഈ സമയം ഫീൽഡ് ബന്ധിപ്പിച്ച ഏതൊരു കണ്ടക്ടറിലും കാന്തികക്ഷേത്രം വ്യത്യാസപ്പെടുന്നു ഇൻഡക്റ്റൻസിന്റെ സർക്യൂട്ട് പാരാമീറ്ററിന്റെ സർക്യൂട്ട് പാരാമീറ്റർ നിങ്ങളുടെ ഇൻഡ്യൂസുചെയ്ത വോൾട്ടേജിനെ വൈദ്യുതധാരയുമായി ബന്ധപ്പെടുത്തുന്നു ഇത് പൊതുവായി അറിഞ്ഞാൽ v L dy dt അതിലേക്ക് വരും അതിനാൽ ഞാൻ അത് മായ്ക്കട്ടെ അതിനാൽ ഒരു ഇൻഡക്ടറിലൂടെ വൈദ്യുതധാര കടന്നുപോകാൻ അനുവദിക്കുകയാണെങ്കിൽ ഇൻഡക്ടറിലുടനീളമുള്ള വോൾട്ടേജ് വൈദ്യുതധാരയുടെ സമയ നിരക്കിന് ആനുപാതികമാണെന്ന് കണ്ടെത്തി അതിനാൽ നിഷ്ക്രിയ ചിഹ്ന കൺവെൻഷൻ ഉപയോഗിച്ച് v L di dt ഇത് സമവാക്യം 20 ആണെന്ന് പറയുക ഇവിടെ L എന്നത് ആനുപാതികതയുടെ സ്ഥിരതയാണ് ഇൻഡക്റ്റൻസ് ഈ അറിവ് ഇൻഡക്റ്റൻസിന്റെ യൂണിറ്റ് ഹെൻറിയും ഇൻഡക്റ്റൻസ് പ്രോപ്പർട്ടിയുമാണ് അതിനാൽ ഹെൻറിയിൽ അളക്കുന്ന വൈദ്യുത പ്രവാഹത്തെ മാറ്റുന്നതിനെ ഒരു ഇൻഡക്റ്റർ എതിർപ്പ് പ്രകടിപ്പിക്കുന്ന സ്വത്താണ് ആ ഇൻഡക്റ്റൻസ് അതിനാൽ ഇത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ പല കാര്യങ്ങളിലും ഇത് ലളിതമായ കാര്യമാണെന്ന് അറിയുക എന്നാൽ ഈ ആമുഖം ആരംഭിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ എഴുതിയത് അതിനാൽ ഞാൻ ഇത് മായ്ക്കട്ടെ അതിനാൽ ഇൻഡക്റ്ററുകൾക്കുള്ള സർക്യൂട്ട് ചിഹ്നങ്ങൾ ചിത്രം 9 ൽ കാണിച്ചിരിക്കുന്നു ഇത് എയർ കോർ ആയിരിക്കുമ്പോൾ ഇൻഡക്റ്ററിന്റെ അടയാളമാണ് ഇത് ഇവിടെ ഒരു എയർ കോർ എന്ന് എഴുതിയിരിക്കുന്നു ഈ ചിഹ്നം ഉള്ളപ്പോൾ അത് ഇരുമ്പ് കോർ ആണ് ഈ വേരിയബിൾ ചിഹ്നം ഉള്ളപ്പോൾ അമ്പടയാളം ഇത് വേരിയബിൾ ഇരുമ്പ് കോർ ആണ് ഇത് നിങ്ങളുടെ ഇൻഡക്റ്ററായ ചിഹ്നങ്ങളാണ് ഇത് ഇങ്ങനെ എഴുതുമ്പോഴാണ് ഇത് എയർ കോർ 2 ബാർ ചെയ്യുമ്പോൾ അത് ഇരുമ്പ് കോർ ആണ് അത് വേരിയബിൾ ഇരുമ്പ് കോർ ആണെങ്കിൽ 2 ബാർ എന്നിട്ട് അമ്പടയാളം ഉണ്ടാക്കുക അതിനാൽ ഇത് ഇൻഡക്ടറിന്റെ ചിഹ്നമാണ് അതിനാൽ ഞാൻ അത് മായ്ക്കട്ടെ അതിനാൽ ഒരു ഇൻഡക്റ്ററിനായുള്ള ഒരു ബന്ധത്തിനുള്ള വോൾട്ടേജ് v L di dt എന്ന സമവാക്യം 20 അതിനാൽ ഈ കണക്ക് 20 ഒരു ഇൻഡക്റ്ററിനായുള്ള ബന്ധം ഗ്രാഫിക്കായി കാണിക്കുന്നു കപ്പാസിറ്റർ പോലെ R C dv dt അത്തരമൊരു ഇൻഡക്റ്ററിനെ ലീനിയർ ഇൻഡക്റ്റർ എന്ന് വിളിക്കുന്നു ഇൻഡക്റ്റർ സ്വതന്ത്രമാകുമ്പോൾ L വൈദ്യുതധാരയിൽ നിന്ന് സ്വതന്ത്രമാണ് തുടർന്ന് ഈ വശം vy ആക്സിസ് x ആക്സിസ് di dt ആണ് ഉറവിടത്തിലൂടെ കടന്നുപോകുന്ന ലളിതമായ നേർരേഖ ഈ ചരിവിൽ യഥാർത്ഥത്തിൽ L ചരിവ് ഈ സാഹചര്യത്തിൽ ഇൻഡക്റ്ററാണ് അതിനാൽ L എന്നത് I കറന്റിലെ ഒരു ഫംഗ്ഷനല്ല അതിനാൽ ഇത് ഒരു ലീനിയർ ഇൻഡക്റ്ററാണ് അതിനാൽ ഇത് വോൾട്ടേജ് കറന്റ് ബന്ധം ലളിതമാണ് ഇപ്പോൾ v L di dt എന്നാൽ അർത്ഥമാക്കുന്നത് di 1 L v dt ഇത് സമവാക്യം 21 ആണ് ഇപ്പോൾ ഇന്റഗ്രേറ്റ് ചെയ്താൽ 1 L അനന്തത മുതൽ v dt vt dt vt t യുടെ ഫങ്ക്ഷൻ ആയിരിക്കണം ഇത് സമവാക്യം 22 അങ്ങനെ കപ്പാസിറ്റർ ന്റെ ഒരേ തത്ത്വചിന്ത വച്ച് ഇന്റഗ്രേറ്റ് ചെയ്താൽ 1L t 0 മുതൽ t vt dt i t 0 ആയിരിക്കും അത് സമവാക്യം 20 3 കപ്പാസിറ്റർ പോലെ സമാനമായ തത്ത്വചിന്തയും വിശദീകരിക്കുക അതിനിടയിലുള്ള മൊത്തം വൈദ്യുതധാര t അനന്തതയേക്കാൾ വലുത് അനന്തത t 0 നേക്കാൾ കുറവ് എല്ലായ്പ്പോഴും 0 എടുക്കുക അതിനാൽ i ഇൻഫിനിറ്റി 0 ആക്കുക എന്ന ആശയം പ്രായോഗികവും ന്യായയുക്തവുമാണ് കാരണം അവ ഇൻഡക്റ്ററിൽ കറന്റ് ഇല്ലാത്ത ഒരു കാലമായിരിക്കണം അതിനാൽ കുറച്ച് സമയത്തിനുള്ളിൽ ഇൻഡക്ടറിൽ കറന്റ് ഇല്ലായിരുന്നു അതിനാൽ ഇത്തരത്തിലുള്ള അനുമാനത്തിന് ഇത് വളരെ പ്രായോഗികമാണ് അതിനാൽ i അനന്തമായി അതിനെ 0 ആയി എടുക്കുകയും ഇൻഡക്റ്ററിന് നൽകുന്ന പവർ p v I ആയിരിക്കും അതിനാൽ v L di dt i അതിനാൽ ഇത് സമവാക്യം 24 ആണ് സംഭരിച്ചിരിക്കുന്ന ഊർജ്ജം w അനന്തത t pdt അതായത് അനന്തത t L di dt i ഇത് 1 സമന്വയിപ്പിച്ചാൽ അത് അടിസ്ഥാനപരമായി അത് L ആയിരിക്കും അനന്തത മുതൽ ti vi അതിനാൽ അത് പകുതി Li 2 t പകുതി Li 2 നിങ്ങളുടെ അനന്തത 2 ഇത് സമവാക്യം 25 എന്നാൽ അനന്തത 0 എന്നത് 0 i അനന്തത ആയതിനാൽ അതിനാൽ ഊർജ്ജം സംഭരിക്കുന്നു പകുതി Li 2 ഇത് സമവാക്യം 26 ലളിതമായ കാര്യമാണ് അതിനാൽ 20 എന്ന സമവാക്യം അർത്ഥമാക്കുന്നത് ഒരു കപ്പാസിറ്റർ എന്ന പോലെ തന്നെ ഇൻഡക്റ്ററിന്റെ പ്രധാന സവിശേഷതകളെ പരിഹരിക്കുന്നതു ശ്രദ്ധിക്കാം അതിനാൽ ശുദ്ധമായ ഇൻഡക്റ്റർ v സമവാക്യം 20 v L di dt എന്ന കാണും അതിനാൽ സമവാക്യം 20 ൽ നിന്ന് മനസ്സിലാക്കാം കാരണം വൈദ്യുതധാര സ്ഥിരമാകുമ്പോൾ v L di dt i സ്ഥിരമാണെങ്കിൽ di dt 0 അതിനാൽ ഒരു ഇൻഡക്ടറിലുടനീളമുള്ള വോൾട്ടേജ് 0 ആയതിനാൽ ഒരു ഇൻഡക്റ്റർ dc യിലേക്ക് ഒരു ഷോർട്ട് സർക്യൂട്ട് പോലെ പ്രവർത്തിക്കുന്നു അതിനാൽ ഇൻഡക്റ്റർ dc യിലേക്ക് ഒരു ഷോർട്ട് സർക്യൂട്ട് പോലെ പ്രവർത്തിക്കുന്നുവെന്ന് അനുമാനിക്കാൻ കഴിയും രണ്ടാമത്തേത് ഇൻഡക്റ്ററിലേക്കുള്ള കറന്റ് തൽക്ഷണം മാറ്റാൻ കഴിയില്ല അതിനാൽ ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ സമവാക്യം 20 അനുസരിച്ച് v L di dt ഒരു ഇൻഡക്റ്ററിലേക്കുള്ള വൈദ്യുതധാരയിലെ നിരന്തരമായ മാറ്റം അനന്തമായ വോൾട്ടേജ് ആവശ്യമാണ് ശാരീരികമായി സാധ്യമല്ലാത്തതു ആണ് അങ്ങനെ ഒരു ഇൻഡക്റ്റർ അതിലൂടെയുള്ള വൈദ്യുത വ്യതിയാനത്തെ എതിർക്കുന്നു ഉദാഹരണത്തിന് ഒരു ഇൻഡക്റ്ററിലൂടെയുള്ള വൈദ്യുതധാര ചിത്രം 21a ൽ കാണിച്ചിരിക്കുന്ന വിധം എടുത്തേക്കാം ഞാൻ അതിലേക്ക് വരും അതേസമയം ഇൻഡക്റ്റർ കറന്റിന് ചിത്രം 21 ൽ കാണിച്ചിരിക്കുന്ന വിധം എടുക്കാൻ കഴിയില്ല അതിനർത്ഥം ചിത്രത്തിലെ ഇൻഡക്റ്ററിനായുള്ള ഇത്തരത്തിലുള്ള മാറ്റം ഒരു കുഴപ്പമില്ല പക്ഷേ ഇവിടെ പെട്ടെന്ന് അത് ഇവിടെ നിന്ന് നേരിട്ട് പെട്ടെന്ന് 0 ആയി കുറയുന്നു അത് അല്ല യഥാർത്ഥ ജീവിതത്തിൽ സാധ്യമല്ല അതിനാൽ ഇത്തരത്തിലുള്ള നിർത്തലാക്കൽ സാധ്യമല്ല അതിനാൽ ഇൻഡക്റ്ററിലൂടെ ഇത് കറന്റ് നൽകുന്നു ഇത് അനുവദനീയമല്ല എന്നാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അനുവദനീയമല്ലാത്തതും പെട്ടെന്നുള്ള മാറ്റം ഇൻഡക്റ്ററിൽ സാധ്യമല്ല എന്നിരുന്നാലും ഒരു ഇൻഡക്ടറിലുടനീളമുള്ള വോൾട്ടേജ് പെട്ടെന്ന് മാറാം അടുത്ത 1 ഒരു അനുയോജ്യമായ ഇൻഡക്റ്റർ ഊർജ്ജത്തെ ഇല്ലാതാക്കുന്നില്ല ഇൻഡക്റ്ററിൽ സംഭരിച്ചിരിക്കുന്ന ഊർജ്ജം പിന്നീടുള്ള സമയത്ത് വീണ്ടെടുക്കാൻ കഴിയും ഇത് മുമ്പ് കണ്ടതെന്തും കപ്പാസിറ്റർ പോലെയുള്ള അതേ തത്ത്വചിന്തയാണ് ഊർജ്ജം സംഭരിക്കുമ്പോൾ ഇൻഡക്റ്റർ സർക്യൂട്ടിൽ നിന്ന് പവർ എടുക്കുകയും മുമ്പ് സംഭരിച്ച ഊർജ്ജം തിരികെ നൽകുമ്പോൾ സർക്യൂട്ടിലേക്ക് പവർ നൽകുകയും ചെയ്യുന്നു അതിനാൽ പ്രായോഗികവും അനുയോജ്യമല്ലാത്തതുമായ ഇൻഡക്റ്ററിന് കാര്യമായ റെസിസ്റ്റീവ് ഘടകമുണ്ടെങ്കിൽ ചെമ്പ് പോലുള്ള നിങ്ങളുടെ ചാലക വസ്തുക്കളിൽ നിന്നാണ് ഇൻഡക്റ്റർ നിർമ്മിച്ചിരിക്കുന്നത് എന്ന വസ്തുത കാരണം ഇതിന് കാര്യമായ റെസിസ്റ്റീവ് ഘടകമുണ്ട് ചില പ്രതിരോധം കൂടാതെ ചാലക കോയിലുകൾ തമ്മിലുള്ള നിങ്ങളുടെ കപ്പാസിറ്റീവ് കപ്ലിങ് കാരണം ഒരു വിൻഡിംഗ് കപ്പാസിറ്റൻസും ഉണ്ട് അതിനർത്ഥം ഇതിന് പ്രതിരോധമുണ്ട് ചില കപ്പാസിറ്റൻസും ഉണ്ട് അതിനാൽ ഒരു ഇൻഡക്ടറിനായി നിങ്ങളുടെ കൃത്യമായ സർക്യൂട്ട് ഇതാണ് പ്രായോഗികമായി ഇൻഡക്റ്റർ എന്നാൽ സാധാരണയായി R w എന്നത് ആ ഇൻഡക്റ്റീവ് കോയിലിന്റെ പ്രതിരോധമാണ് CW എന്നത് നിങ്ങളുടെ 2 വിൻഡിംഗിനുമിടയിലുള്ള നിങ്ങളുടെ കപ്ലിങ് കപ്പാസിറ്റൻസിന് ഇടയിലുള്ള വളരെയധികം വിൻഡിംഗുകൾ ഉണ്ടെന്ന് പറയുന്നു അതിനാൽ ഇതിനെ കപ്പ് Cw കപ്ലിംഗ് കപ്പാസിറ്റർ എന്ന് വിളിക്കുന്നു അതിനാൽ ഇത് ഇൻഡക്റ്ററിനുള്ള കൃത്യമായ സർക്യൂട്ട് ആണ് എന്നാൽ വാസ്തവത്തിൽ Rw വളരെ നിസ്സാരവും Cw യും നിസാരമാണ് അതിനാൽ ഇൻഡക്റ്റർ റെസിസ്റ്റൻസ് പരിഗണിക്കുക എന്നത് ചില പ്രശ്നങ്ങളാൽ പരിഗണിക്കപ്പെടില്ല പിന്നീട് ഇൻഡക്റ്ററിന്റെ പ്രതിരോധവും ഇൻഡക്റ്റൻസും കണ്ടെത്തുന്നതിന് പരിഗണിക്കുക പിന്നീട് സർക്യൂട്ട് വിശകലനത്തെ സംബന്ധിച്ചിടത്തോളം Cw പൊതുവേ പരിഗണിക്കില്ല അതിനാൽ ചിത്രം 22 ൽ Rw വിൻഡിംഗ് റെസിസ്റ്റൻസ് എന്നും കപ്പാസിറ്റൻസ് CW നെ വിൻഡിംഗ് കപ്പാസിറ്റൻസ് എന്നും വിളിക്കുന്നു അതിനാൽ Rw ന്റെ സാന്നിദ്ധ്യം രണ്ടും ഒരു ഊർജ്ജ സംഭരണ ഉപകരണമാക്കി മാറ്റുന്നു കാരണം പ്രതിരോധം ഉള്ളതിനാൽ ഊർജ്ജ വിസർജ്ജന ഉപകരണം കാരണം Rw Cw എന്നിവ വളരെ ചെറുതായതിനാൽ ഇൻഡക്റ്റർ സ്റ്റോർ എനർജി റെസിസ്റ്ററിൽ ചൂട് പറയുന്ന രൂപത്തിൽ വ്യാപിക്കും മിക്ക കേസുകളിലും അവഗണിക്കാം അടുത്തത് സീരീസ് സമാന്തര ഇൻഡക്റ്ററുകൾ അതിനാൽ ഇത് നിങ്ങളുടെ 23 സർക്യൂട്ട് N ഇൻഡക്ടറുകളുടെ സീരീസ് കോമ്പിനേഷൻ കാണിക്കുന്നു ഇവിടെ വോൾട്ടേജ് V ഉണ്ട് L 1 L 2 L 3 എല്ലാം L N വരെയാണ് എല്ലാം സീരീസ് കറന്റിലേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്നു L 1 ന് കുറുകെയുള്ള ഈ i വോൾട്ടേജ് v 1 ഉം L 2 v 2 ൽ LN ന് കുറുകെ b 2 ഉം ആണ് അതിനാൽ ഇത് N ഇൻഡക്ടറിന്റെ സീരീസ് കണക്ഷനാണ് അതിനാൽ കെവിഎൽ പ്രയോഗിക്കുക അതിനുശേഷം v v 1 പ്ലസ് v 2 മുതൽ v N വരെ ഈ സമവാക്യം 27 എന്ന് സംഗ്രഹിക്കാം അല്ലെങ്കിൽ v L 1 di dt പ്ലസ് L 2 d 2 di dt പ്ലസ് L 3 di dt മുകളിലേക്ക് LN di dt ലേക്ക് L 1 L 2 L 3 എല്ലാം സാധാരണമാണ് അതിനാൽ ഇത് di dt അല്ലെങ്കിൽ v L eq di dt ആയിരിക്കും ഇത് സമവാക്യം 28 ഇവിടെ L L 1 പ്ലസ് L 2 പ്ലസ് L 3 സമവാക്യം 29 വരെ അതിനാൽ സമവാക്യം 24 സീരീസ് ഇൻഡക്റ്ററിന് തുല്യമായ തുല്യത കാണിക്കുന്നു ഇത് ഇൻഡക്റ്റർനുള്ള ഒരു പ്രതിരോധം പോലെയാണ് ഇത് R1 R2 R3 എല്ലാ റെസിസ്റ്റൻസും സീരീസിൽ ആയിരിക്കുമ്പോൾ സീരീസിലെ ഒരു റെസിസ്റ്റർ പോലെയാണ് പക്ഷേ ഇൻഡക്റ്ററും അതിനെ ന്യായീകരിക്കുന്നു അതിനാൽ ഇതൊരു തുല്യമായ സർക്യൂട്ടാണ് ഇത് L eq L eq L 1 പ്ലസ് L 2 പ്ലസ് L 3 അങ്ങനെ സീരീസ് ഇൻഡക്റ്ററിനായുള്ള എല്ലാ ഇൻഡക്റ്റേഴ്സിനും തുല്യമായ സർക്യൂട്ട് അതിനാൽ സീരീസിലെ ഇൻഡക്റ്റർ ശ്രേണിയിലെ റെസിസ്റ്ററുകളുടെ അതേ രീതിയിൽ സംയോജിപ്പിച്ചിരിക്കുന്നു അതിനാൽ ചിത്രം 25 ൽ കാണിച്ചിരിക്കുന്ന N ഇൻഡക്റ്ററുകളുടെ നിങ്ങളുടെ സമാന്തര കണക്ഷൻ ഇപ്പോൾ പരിഗണിക്കുക ഇൻഡക്റ്ററിന് അവയിലുടനീളം നിങ്ങളുടെ അതേ വോൾട്ടേജ് ഉണ്ട് അതിനാൽ ഇതാണ് വോൾട്ടേജ് L N വരെയുള്ള ഈ L 1 L 2 L 3 എല്ലാ ഇൻഡക്ടറുകളും സമാന്തരമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഇതാണ് നിലവിലെ പ്രവേശനം i തുടർന്ന് i1 i2 i3 എല്ലാ ഇൻഡക്ടറിലൂടെയും പോകുന്നു ഇൻഡക്റ്റർ 1 ഇൻഡക്റ്റർ 2 ഇതുപോലെയാണ് അതിനാൽ കിർചോഫ് നിങ്ങളുടെ കെസിഎൽ പ്രയോഗിച്ചാൽ i i1 പ്ലസ് i2 മുതൽ iN വരെ ഇത് i i1 പ്ലസ് i2 പ്ലസ് i3 മുതൽ I N വരെ ഉണ്ടാക്കുക i i1 1 L1 t 0 മുതൽ t v dt പ്ലസ് i1 t 0 വരെ പ്രാരംഭ ഇൻഡക്റ്റർ കറന്റ് അല്ലെങ്കിൽ കപ്പാസിറ്റർ പോലെയുള്ളത് അതേ കാര്യം പ്ലസ് 1 L 2 t 0 മുതൽ t v dt വരെ പ്ലസ് i മുതൽ t 0 വരെയും 1 L N t മുതൽ t v dt പ്ലസ് i N t 0 വരെയും ഇപ്പോൾ എല്ലാ നിബന്ധനകളും ശേഖരിക്കുക നിങ്ങളുടെ വാട്ട്കാളിനെ t 0 മുതൽ v dt വരെ സംയോജിപ്പിച്ച് ഗുണിക്കുന്നു ഇത് 1 L 1 പ്ലസ് 1 L 2 പ്ലസ് വരെ 1 LN t 0 tt 0 മുതൽ tv dt പ്ലസ് i1 t 0 പ്ലസ് i2 t 0 പ്ലസ് നിങ്ങളുടെ i n t 0 വരെ ഓർക്കാൻ റൈറ്റ് i 1 L eq t 0 to tv dt പ്ലസ് 0 അതേസമയം 1 L eq 1 L 1 പ്ലസ് 1 L 2 പ്ലസ് 1 L 3 പ്ലസ് 1 LN വരെ അത് തുല്യമാണ് R eq 1 R 1 പ്ലസ് 1 R 2 ന് 1 മുകളിലായിരിക്കുമ്പോൾ നിങ്ങളുടെ പ്രതിരോധം സമാന്തരമായിരിക്കുമെന്നതിനാൽ റെസിസ്റ്ററിനെ പോലെ തന്നെ ഇത് പ്രാരംഭ കാര്യമാണ് 0 i 1 t 0 പ്ലസ് i 2 t 0 വരെ i N t 0 ഇത് സമവാക്യം 31 ഉം ഇത് സമവാക്യം 32 ഉം ആണ് അതിനാൽ സമാന്തരമായി ഇൻഡക്റ്ററുകൾ സമാന്തരമായി റെസിസ്റ്ററുകളുടെ അതേ രീതിയിൽ സംയോജിപ്പിച്ചിരിക്കുന്നു അടുത്തത് 2 3 ഉദാഹരണങ്ങൾ എടുക്കും അതിനാൽ 0 01 ഹെൻറി ഇൻഡക്ടറിലൂടെയുള്ള വൈദ്യുതധാര ഇതാണ് 5 ടി പവർ 10 ടി ആമ്പിയർ ഇൻഡക്ടറിലുടനീളമുള്ള വോൾട്ടേജും അതിൽ സംഭരിച്ചിരിക്കുന്ന ഊർജ്ജവും നിർണ്ണയിക്കുക v L di dt L എന്നിവയ്ക്ക് 0 പോയിന്റ് 0 1 ഹെൻറി നൽകിയിട്ടുണ്ടെന്നും അതിന് 5 t നിങ്ങളുടെ e പവർ 10 t നൽകുന്നു അത് നൽകിയിട്ടുണ്ട് അതിനാൽ v നിങ്ങളുടെ L d dt അതിനാൽഅതിന്റെ ഡെറിവേറ്റീവ് 0 05 e പവറിന് 10 t പ്ലസ് 0 05 t 10 e പവറും 10 t ആയി മാറും ലളിതമായി പറഞ്ഞാൽ അത് v ആയിരിക്കും 0 05 1 10 t e പവർ 10 t വോൾട്ട് അതിനാൽ സംഭരിക്കുന്ന ഊർജ്ജം പകുതി Li 2 ആണ് അതിനാൽ പകുതി L ഇത് നിങ്ങളുടെ i 2 ആണ് അതിനാൽ 25 t 2 e പവറിലേക്ക് 20 t അതിനാൽ ഇത് അടിസ്ഥാനപരമായി 0 125 t 2 e പവറിന് 20 t ജൂൾ ആണ് അതിനാൽ ഇത് ലളിതമായ ഉദാഹരണമാണ് അടുത്തത് 5 മില്ലി ഹെൻറി ഇൻഡക്റ്ററിലൂടെ വൈദ്യുതധാര കണ്ടെത്തുക അതിലൂടെയുള്ള വോൾട്ടേജ് vt 30 t 2 t 0 നേക്കാൾ വലുതാണെങ്കിൽ ഇത് 0 t 0 എന്നതിനേക്കാൾ ചെറുതാണെങ്കിൽ അതിനാൽ t 0 നേക്കാൾ വലുതും 0 5 സെക്കൻഡിനേക്കാൾ ചെറുതും ആണെങ്കിൽ സംഭരിച്ചിരിക്കുന്ന ഊർജ്ജം നിർണ്ണയിക്കുക അതിനാൽ i 1 L t 0 മുതൽ vt dt പ്ലസ് i t 0 വരെ അറിയുക അതിനാൽ L 5 മില്ലി ഹെൻറി നൽകി അതിനാൽ ഇത് 5 10 പവറിന് 3 ഹെൻറിയും ആണ് ഐ 1 L അത് 5 10 പവറിന് 30 മുതൽ t ആണ് മൂന്നാമത്തെ v 30 vt 30 t 2 നൽകിയ dt പ്ലസ് 0 അതായത് നിങ്ങളുടെ ഇത് 0 യഥാർത്ഥത്തിൽ 0 കാരണം vt നൽകിയിട്ടുള്ള വോൾട്ടേജിലുടനീളം നിങ്ങളുടെ 5 മില്ലി ആമ്പിയർ കണ്ടുപിടിക്കുക കാരണം vt 0 ന് 0 ആണ് അതിനാൽ നിങ്ങളുടെ കാര്യത്തിൽ ഇത് 0 0 ആണ് അതിനാൽ ഇത് 2000 t q ആമ്പിയർ ആണ് അതിനാൽ പവർ p vip മുപ്പത് t 2 2000 t ക്യൂബ് 6 10 പവർ 4 t പവർ 5 ലേക്ക് തുടർന്ന് സംഭരിച്ചിരിക്കുന്ന ഊർജ്ജം 0 നും 0 5 നും ഇടയിൽ ചോദിക്കുന്നു അതിനാൽ ഈ 0 മുതൽ 0 5 വരെ പിഡിടി പി 6 10 പവർ 4 t പവറുമായി 5 സംയോജിപ്പിക്കുക അതിനാൽ ഇവിടെ പകരം വയ്ക്കുക സംയോജിപ്പിക്കുക നിങ്ങളുടെ ഒമേഗ 156 25 ജൂൾ ലഭിക്കും ഇത് ഒരു ലളിതമായ ഉദാഹരണമാണ് ലളിതമായ ഉദാഹരണം ഇപ്പോൾ മറ്റൊരു 1 ചിത്രം 26 ലളിതമായ സർക്യൂട്ട് dc അവസ്ഥയിൽ കാണിക്കുന്നു iv C v L ഉം കപ്പാസിറ്ററിലെ സംഭരിച്ചിരിക്കുന്ന ഊർജ്ജവും നിർണ്ണയിക്കുക അതിനാൽ ലളിതമായ സർക്യൂട്ട് നൽകിയിട്ടുണ്ടെങ്കിൽ ഇത് iv C v L കണ്ടെത്തുന്നതിന് dc കണ്ടീഷൻ കീഴിൽ കണ്ടെത്താനുള്ളതാണ് ഇത് i ആണ് ഇത് v C ആണ് ഇത് നിങ്ങളുടെ വോൾട്ടേജാണ് നിങ്ങളുടെ v L ഊർജ്ജം കപ്പാസിറ്ററിലും ഇൻഡക്റ്ററിലും സംഭരിച്ചിരിക്കുന്നു അതിനാൽ ചോദ്യം dc അവസ്ഥയിലാണ് എന്നതാണ് കപ്പാസിറ്ററിന് പകരം ഒരു ഓപ്പൺ സർക്യൂട്ട് നൽകുന്നു കൂടാതെ ഡിസി കണ്ടീഷൻ ഇൻഡക്റ്റർ ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കണം അതിനാൽ ഇത് ഷോർട്ട് സർക്യൂട്ട് ഇൻഡക്റ്റർ ഷോർട്ട് സർക്യൂട്ട് ആണ് അതായത് ഈ 3 ആമ്പിയർ കറന്റ് ഇല്ല 3 ആമ്പിയറിലൂടെ ഒഴുകുന്നു കാരണം ഇത് ഓപ്പൺ സർക്യൂട്ട് ആയതിനാൽ കറന്റ് ഒഴുകുന്നില്ല അതിനാൽ അത് 4 പ്ലസ് 1 5 ഓം 10 വോൾട്ട് എന്നിവയാണ് ഇത് 10 5 2 ആമ്പിയർ ആയിരിക്കും അതിനാൽ i അതേ അവസ്ഥ ഇതാണ് ലളിതമായ സീരീസ് സർക്യൂട്ട് പിന്നെ ഇവിടെ ഒന്നും പ്രവഹിക്കുന്നില്ല അതിനാൽ i ഉം i L ഉം ഇത് സമാനമാണ് അതിനാൽ 4 പ്ലസ് 1 2 ആമ്പിയറിൽ i i L 10 v C കപ്പാസിറ്ററിലുടനീളം വോൾട്ടേജ് യഥാർത്ഥത്തിൽ ഇതാണ് നിങ്ങളുടെ വോൾട്ടേജ് v C ഇവിടെ വൈദ്യുത പ്രവാഹം ഇല്ല അതിനാൽ അടിസ്ഥാനപരമായി ഇത് യഥാർത്ഥത്തിൽ എനിക്ക് മികച്ച രീതിയിൽ എഴുതാൻ കഴിയും ഇത് യഥാർത്ഥത്തിൽ v C ആണ് ഇത് നിങ്ങളുടെ നിലവിലെ ഈ കറന്റ് ആണ് നിങ്ങളുടെ IL ഇതിലേക്ക് ഒഴുകുന്നു അതിനാൽ v C 1 i L i L 2 ആമ്പിയർ അതിനാൽ v C അടിസ്ഥാനപരമായി 2 വോൾട്ട് അതിനാൽ ഞാൻ ഇത് മായ്ക്കട്ടെ അതിനാലാണ് v C 2 വോൾട്ട് ഇപ്പോൾ ഇവിടെ ഊർജ്ജം കപ്പാസിറ്ററിൽ സംഭരിച്ചിരിക്കുന്ന എനർജി Wc പകുതി C v C 2 അതിനാൽ നിങ്ങളുടെ പകുതി സി ശക്തിക്ക് 0 1 10 പവർ 6 ഫറാഡ് കാരണം 0 1 മൈക്രോ ഫറാഡ് അതിനാൽ ഫറാഡ് v C 2 വോൾട്ട് അല്ലെങ്കിൽ 2 2 ജൂൾ അതിനാൽ 0 2 മൈക്രോ ജൂളുകൾ കൂടാതെ ഇൻഡക്ടറിൽ നിങ്ങളുടെ പകുതി L i 2 ആയിരിക്കും അതിനാൽ ഇത് പകുതി 0 2 10 പവറിന്റെ 3 മുതൽ 2 2 വരെ ആയിരിക്കും അതിനാൽ WL 0 4 മൈക്രോ മില്ലി ജൂൾ അതിനാൽ നിങ്ങളുടെ ഇൻഡക്റ്ററിൽ സംഭരിച്ചിരിക്കുന്ന ഊർജ്ജം ഇതാണ് അതിനാൽ അടുത്തത് ഈ പ്രശ്നം ലളിതമായ പ്രശ്നമാണ് ഈ കണക്ക് 2 e 10 t മില്ലി ആമ്പിയർ നൽകിയിരിക്കുന്നു അതിന്റെ പ്രാരംഭ അവസ്ഥ നൽകിയിട്ടുണ്ടെങ്കിൽ 1 മില്ലി ആമ്പിയർ പ്രാരംഭ വ്യവസ്ഥകൾ കണ്ടെത്തുന്നു i1 0 vt തുടർന്ന് ഇത് കണ്ടെത്തുന്നതിന് v 1 v 2 i 1 t i 2 t എന്നിവ ഉൾക്കൊള്ളുന്നു അതിനാൽ ഇതാണ് സർക്യൂട്ട് നൽകിയിരിക്കുന്നത് 2 ഇൻഡക്റ്ററുകൾ സമാന്തരമായിരിക്കുമ്പോൾ ഈ സർക്യൂട്ട് നൽകപ്പെടുന്നു അതിനാൽ ഈ 2 ഇൻഡക്ടറുകളും സമാന്തരമായി അർത്ഥമാക്കുന്നത് ഈ ഇൻഡക്റ്ററും ഈ ഇൻഡക്റ്ററും സമാന്തരമാണ് എന്നതിനർത്ഥം തുല്യ ഇൻഡക്റ്റൻസ് 12 H 12 124 ആയിരിക്കും അതിനാൽ ഇത് നിങ്ങളുടെ 3 ഹെൻറിയായിരിക്കും തുടർന്ന് 2 ഹെൻറി നിങ്ങളുടേത് ഒരു റെസിസ്റ്റർ പോലെയാണ് ഇൻഡക്റ്റർ കേസിനായി റെസിസ്റ്ററിനായി ചെയ്ത സീരീസ് സമാന്തര കോമ്പിനേഷൻ എന്തായാലും അത് സമാനമാണ് ഇതും ഈ 2 ഹെൻറിയും ഉണ്ട് അതിനാൽ 2 പ്ലസ് ഈ 3 5 ഹെൻറിക്ക് തുല്യമായ ഇൻഡക്ടറുകളായിരിക്കും അതിനാൽ ഞാൻ അത് മായ്ക്കട്ടെ അതിനാൽ ഈ സാഹചര്യത്തിൽ ഇത് 2 e പവറിന് 10 ടി മില്ലി ആമ്പിയറും i 2 0 1 മില്ലി ആമ്പിയർ നൽകിയിരിക്കുന്നു ഇപ്പോൾ ഈ പദപ്രയോഗത്തിൽ t 0 എന്ന് കണ്ടെത്തുക അതിനാൽ ആ സാഹചര്യത്തിൽ i 0 2 1 ലഭിക്കും അതിനാൽ 1 മില്ലി ആമ്പിയർ അതിനാൽ ഈ നോഡിൽ നിങ്ങളുടെ കെസിഎൽ പ്രയോഗിക്കുകയാണെങ്കിൽ പ്രാരംഭ നിബന്ധനയ്ക്ക് i 0 i 1 0 ഒപ്പം i 2 0 എന്ന് എഴുതുക അതിനാൽ അവയിൽ ഒരെണ്ണം നൽകുകയും ഞാൻ 0 കണക്കുകൂട്ടുകയും ചെയ്യുന്നു അതിനാൽ മറ്റ് 1 എളുപ്പത്തിൽ നേടാനാകും അതിനാൽ ഞാൻ അത് മായ്ക്കട്ടെ അതിനാൽ ഞാൻ നിങ്ങളുടെ അപ്പോൾ i 0 എന്നത് 1 ലഭിച്ചു i2 0 നൽകിയിരിക്കുന്നു 1 ആമ്പിയർ അതിനാൽ i 1 0 പ്രാരംഭ അവസ്ഥ നിങ്ങളുടെ പ്രാരംഭ വൈദ്യുതധാരയാണ് അത് 2 മില്ലി ആമ്പിയർ L eq അതിന് തുല്യമാണ് നമ്മൾ കണക്കാക്കിയത് 2 പ്ലസ് 4 124 പ്ലസ് പന്ത്രണ്ടും 5 ഹെൻറി ആയിരിക്കും vt ഇതാണ് സർക്യൂട്ട് ഇത് നിങ്ങളുടെ v ആണ് അതിനാൽ vt തുല്യതാ സർക്യൂട്ട് ചെയ്യുക അതിനാൽ ഇത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ v vt പ്ലസ് ആണ് ഇത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ 5 ഹെൻറിയാണ് ഇത് കറന്റ് i ആണ് അതിനാൽ അതുകൊണ്ടാണ് ഇത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ L eq ഇത് 5 ഹെൻറി അതിനാൽ vt മായ്ക്കട്ടെ L eq di dt അതിനാൽ L eq 5 ഉം I 2 e ഉം പവറിന് 10 t മില്ലി വോൾട്ട് അതിനാൽ ഡെറിവേറ്റീവ് എടുക്കുകയാണെങ്കിൽ അത് vt 50 e പവറിലേക്ക് 10 t മില്ലി വോൾട്ട്ആയി മാറും ഇപ്പോൾ v 1 t 2 di dt ആയിരിക്കും ഇതാണ് നിങ്ങളുടെ 2 ഹെൻറിയും വോൾട്ടേജും v 1 ആണ് അതിനാൽ ഇത് 2 നിങ്ങളുടെ L di dt ആയിരിക്കും ഇത് നൽകിയിട്ടുണ്ടെന്ന് എനിക്കറിയാമെങ്കിൽ ഇവിടെ ഇത് നിങ്ങളുടെ v നിങ്ങളുടെ 2 di dt ആയിരിക്കും അതിനാൽ ഇത് 20 e പവറിന് 10 t മില്ലി വോൾട്ട് ആണ് v v 1 പ്ലസ് v2 ഇത് v1 എന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത് ഇത് ഇതാണ് വോൾട്ടേജ് v 2 എന്നാണ് ഇത് യഥാർത്ഥത്തിൽ വോൾട്ടേജ് v2 ആണ് അതായത് ഇവയിലുടനീളമുള്ള വോൾട്ടേജ് ഇവയിലുടനീളം ഇത് v 2 ആണ് അതിനാൽ കെവിഎൽ പ്രയോഗിച്ചാൽ അത് v v 1 പ്ലസ് v 2 ആയിരിക്കും അതിനാൽ ഞാൻ ഇത് മായ്ക്കട്ടെ നിങ്ങളുടെ v 2 v 2 t vt v 1 t vtനേരത്തെ 50 e പവർ 10 t ഉം v 1 t 20 e ഉം പവറിന് 10 t സമം to 30 e to power 10 t മില്ലി വോൾട്ട് i 1 t 4 0 മുതൽ v 2 dt പ്ലസ് i 1 0 വരെ ആയിരിക്കും അതിനാൽ 30 4 ഉം നിങ്ങളുടെ 0 മുതൽ te to പവർ v 10 t dt i 1 0 2 സമന്വയിപ്പിക്കുകയും ലളിതമാക്കുകയും ചെയ്താൽ i 1 2 i 1 t 2 75 0 75 e പവർ 10 മില്ലി ആമ്പിയർ ലഭിക്കും അതുപോലെ i 2 t 1 12 0 മുതൽ t v 2 dt പ്ലസ് i 2 0 വരെ അതിനാൽ ഇത് 30 12 0 മുതൽ t e പവർ 10t വരെ ആയിരിക്കും ഇവിടെ v 2 t പ്ലസ് നിങ്ങളുടെ i 2 0 എന്ന് അറിയപ്പെടുന്നു അതു 1 എന്നിട്ട് സമന്വയിപ്പിക്കുകയും ലളിതമാക്കുകയും ചെയ്യും i 2 t ന്റെ 0 75 പ്ലസ് 0 25 e ഉം പവറിന് 10 മില്ലി ആമ്പിയർ ഇത് i 2 t ആണ് അതിനാൽ ഈ കപ്പാസിറ്റർ ഇൻഡക്റ്റർ വിഷയം അടച്ചിരിക്കുന്നു കൂടാതെ 2 ഉദാഹരണം ഇവിടെ നൽകിയിരിക്കുന്നു ഉദാഹരണം 1 പോലെ അതിനായി ഇത് പരിഹരിക്കും അതിനാൽ ഇത് അത് എല്ലാം വായിക്കുന്നില്ല എല്ലാം ഇവിടെ നൽകിയിരിക്കുന്നു അതിനുള്ള ഉത്തരവും നൽകുന്നു ഇതാണ് ഉത്തരം നൽകി അതിനാൽ ഇവിടെ ഒരു പ്രശ്നം മാത്രമാണ് ഞാൻ ഇവിടെ നൽകുന്നത് ഇതാണ് ഉത്തരം ഇതാണ് നിങ്ങളുടെ പ്രശ്നം നന്ദി വീണ്ടും മടങ്ങിവരും